ഈ സെഷനിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇതുവരെ ചില ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കി ഇപ്പോൾ ഞങ്ങൾ ചില വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കാൻ തുടങ്ങും കോഡ് ഘടന പരിശോധിച്ചുകൊണ്ട് ടെസ്റ്റ് കേസുകൾ വികസിപ്പിക്കുന്നത് ഞങ്ങൾ ഇതിനകം പറഞ്ഞതുപോലെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ ഉൾപ്പെടുന്നു അവയിൽ ഒരു ഡസനോളം സാധ്യതയുള്ള നിരവധി വൈറ്റ് ബോക്സ് ടെസ്റ്റ് തന്ത്രങ്ങളുണ്ട് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന് 6 7 പ്രധാന തന്ത്രങ്ങൾ ഞങ്ങൾ നോക്കും കോഡിന്റെ ഘടന പരിശോധിച്ച് ടെസ്റ്റ് കേസുകൾ വികസിപ്പിച്ചതിനാൽ ഇവയെ ഘടനാപരമായ പരിശോധന എന്ന് വിളിക്കുന്നു വൈറ്റ് ബോക്സ് ടെസ്റ്റ് തന്ത്രങ്ങൾ ധാരാളം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷേ ഏകദേശം അവയെ കവറേജ് അധിഷ്ഠിതവും തെറ്റ് അടിസ്ഥാനമാക്കിയുള്ളതുമായി തരംതിരിക്കാം കവറേജ് അടിസ്ഥാനമാക്കിയുള്ളവയിൽ ചില പ്രോഗ്രാം ഘടകങ്ങളുടെ കവറേജ് നേടുന്നതിനാണ് ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പ്രസ്താവനകൾ മൂടിവയ്ക്കാൻ ശ്രമിച്ചേക്കാം വ്യവസ്ഥകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചേക്കാം തീരുമാന കവറേജിൽ ഒരു if സ്റ്റേറ്റ്മെന്റ് പോലെ ഒരു തീരുമാനപ്രകടനമുണ്ടെന്ന് ഞങ്ങൾ ഓർക്കുന്നു അതേസമയം സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റ് കേസുകൾ തീരുമാനം സത്യവും തെറ്റും എടുക്കുന്നുവെന്ന് ഉറപ്പാക്കണം അതിനാൽ തീരുമാന പരിശോധനയിൽ ഉൾപ്പെടുന്ന പ്രോഗ്രാം ഘടകം അതാണ് തെറ്റ് അധിഷ്ഠിത പരിശോധന എന്ന നിലയിൽ ചില പ്രത്യേക തരം തകരാറുകൾ കണ്ടെത്തുന്നതിനായി ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നു ഉദാഹരണത്തിന് വേരിയബിളിന്റെ തരം തെറ്റായതിനാൽ ഒരു തെറ്റ് ആയിരിക്കാം int ഒരു ഫ്ലോട്ടിലോ ഫ്ലോട്ടിലോ ഇൻറ്റ് ആക്കി അതിനാൽ കാര്യങ്ങൾ ശരിയായി കണ്ടെത്തിയോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ തെറ്റ് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കും ഒരു കവറേജ് അധിഷ്ഠിത പരിശോധനയിൽ പ്രോഗ്രാം ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നു അതേസമയം ഒരു തെറ്റ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയിൽ ഞങ്ങൾ നിർദ്ദിഷ്ട തരം തകരാറുകൾ ലക്ഷ്യമിടുകയും ആ തെറ്റുകൾ ആ തരത്തിലുള്ള തകരാറുകൾ കണ്ടെത്തിയോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഇതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് കവറേജ് ബ്രാഞ്ച് കവറേജ് പാത്ത് കവറേജ് മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് മൾട്ടിപ്പിൾ കണ്ടീഷൻ ഡിസിഷൻ കവറേജ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ് തുടങ്ങിയവ അതിനാൽ നമുക്ക് ഏറ്റവും ലളിതമായത് നോക്കാം അതായത് സ്റ്റേറ്റ്മെന്റ് കവറേജ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധന എന്നാൽ അതിനുമുമ്പ് ഈ ശരിയായതിനെക്കുറിച്ച് വളരെ ലളിതമായ ചില ആശയങ്ങൾ നേടാൻ ശ്രമിക്കാം ഒരു കാര്യം നിങ്ങൾ ആവശ്യത്തിന് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആവശ്യമാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കണം ഞങ്ങൾ സമഗ്രമായ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെന്ന് കരുതുക ഞങ്ങൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഒഴിവാക്കുമെന്ന് പറയാമോ അല്ലെങ്കിൽ ഞങ്ങൾ സമഗ്രമായ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഒഴിവാക്കാമെന്ന് നമുക്ക് പറയാനാകുമോ ഇല്ല രണ്ടും ചെയ്യേണ്ടതുണ്ടെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു സാധുവായ കാരണം നൽകണം നിങ്ങൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ നഷ്ടമാകുമെന്നതിന് ഒരു സാധുവായ തെളിവാണ് അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നടത്തുന്നില്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മാത്രം ചെയ്യുക ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയില്ല ഞാൻ ഉദാഹരണങ്ങൾ നൽകണം അതിനാൽ എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ കരുതുന്നു കൂടാതെ ബ്ലാക്ക് ബോക്സ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നിവ ആവശ്യമാണെങ്കിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിലൂടെ മാത്രം കണ്ടെത്താനാകാത്ത തരത്തിലുള്ള ബഗുകളുടെ ഉദാഹരണങ്ങൾ നിങ്ങൾ നൽകണം കൂടാതെ നിങ്ങൾ ഒരു ഉദാഹരണമായിരിക്കണം വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിലൂടെ മാത്രം കണ്ടെത്താൻ കഴിയാത്ത ബഗുകൾ അപ്പോൾ നമുക്ക് അതെ രണ്ടും ആവശ്യമാണെന്ന് അവകാശപ്പെടാം ഇനി നമുക്ക് അത് നോക്കാം അതിനാൽ ബ്ലാക്ക് ബോക്സ് പരിശോധനയിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇൻപുട്ട് ഡാറ്റയുടെ ഒരു മാതൃക സൃഷ്ടിക്കുകയും ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് സോഫ്റ്റ്വെയറിന്റെ ആവശ്യകതകളോ പ്രവർത്തനത്തിന്റെ വിവരണമോ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ കോഡ് ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല അതിനാൽ പ്രോഗ്രാമർമാർ ആവശ്യകതയുടെ ഭാഗമല്ലാത്ത ചില കോഡുകൾ എഴുതിയിരിക്കാം അതിനാൽ ചില ഇൻപുട്ട് കോമ്പിനേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കോഡ് സജീവമാകൂ അത് ആവശ്യകതയിൽ വ്യക്തമാക്കിയിട്ടില്ല അതിനാൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് അത് പരീക്ഷിക്കാനാവില്ല ആ ഇൻപുട്ട് മൂല്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഇൻപുട്ട് മൂല്യങ്ങൾ വളരെ വലുതാണ് ആവശ്യകതകളിൽ ചില സാഹചര്യങ്ങളോ മറ്റെന്തെങ്കിലുമോ എഴുതിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഇൻപുട്ട് മൂല്യങ്ങൾ ശരിക്കും പരീക്ഷിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ട്രോജനുകൾ നടപ്പിലാക്കുന്നത് ചില ഇൻപുട്ട് മൂല്യങ്ങൾ നൽകുമ്പോൾ മാത്രമേ പ്രോഗ്രാമർമാർ കോഡ് എഴുതിയിട്ടുള്ളൂ അപ്പോൾ ആ കോഡ് പ്രവർത്തിക്കുകയും ചില ഡാറ്റ പുറത്ത് പ്രസരിപ്പിക്കുകയും ചെയ്യാം അതിനാൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് കോഡിൽ ട്രോജനുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് അസാധ്യമാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബോക്സ് നിങ്ങൾക്ക് നൽകാമോ ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ മാത്രമേ ഇത് കണ്ടെത്താനാകൂ ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ ഞങ്ങൾ കോഡ് നോക്കുന്നു ഞങ്ങൾ ആവശ്യകത ഡോക്യുമെന്റ് നോക്കുന്നില്ല ആവശ്യകത ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നില്ല കോഡിനെ അടിസ്ഥാനമാക്കി ഘടന തിരിച്ചറിയുകയും തുടർന്ന് ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ കോഡിന് ഉണ്ടായിരിക്കേണ്ട ചില പ്രവർത്തനങ്ങൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഇൻപുട്ടിന് കീഴിൽ ഈ പ്രവർത്തനം നടക്കേണ്ട ആവശ്യകതകളുണ്ട് പക്ഷേ കോഡിന് ആ ഭാഗം കാണാനില്ല അതിനായി ഒരു കോഡും ഇല്ല വ്യക്തമായും കോഡ് നോക്കുന്നതിലൂടെ ചില പ്രവർത്തനങ്ങൾ കാണുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അതിനാൽ ബ്ലാക്ക് ബോക്സും വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗും ആവശ്യമാണ് ഇതിനെ കോംപ്ലിമെന്ററി ടെസ്റ്റിംഗ് തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നമുക്ക് കവറേജ് അധിഷ്ഠിത ടെസ്റ്റിംഗ് നോക്കാം വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് കവറേജ് അധിഷ്ഠിത ടെസ്റ്റിംഗ് തെറ്റ് അധിഷ്ഠിത ടെസ്റ്റിംഗ് എന്നിവ നമുക്ക് കൂടുതൽ നോക്കാം കവറേജ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയിൽ ചില പ്രോഗ്രാം ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ എഴുതുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞു മതിയായ കവറേജ് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കവറേജ് പാത്ത് കവറേജ് മുതലായവയാണ് ഞങ്ങൾ ആ തന്ത്രങ്ങൾക്കായി പരീക്ഷിക്കുന്നത് തെറ്റ് അധിഷ്ഠിത പരിശോധനയ്ക്ക് പിന്നിലെ ആശയത്തിൽ പ്രോഗ്രാമർമാർ സാധാരണയായി ചെയ്യുന്ന തെറ്റുകളുടെ തരം ഞങ്ങൾ തിരിച്ചറിയുകയും ആ തെറ്റുകൾ നിലവിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതിന്റെ ഒരു ഉദാഹരണം മ്യൂട്ടേഷൻ പരിശോധനയാണ് അവയിൽ പലതും കവറേജ് അധിഷ്ഠിത ടെസ്റ്റിംഗ് ഞങ്ങൾ നോക്കുന്നു കൂടാതെ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ആയ തെറ്റ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയും ഞങ്ങൾ നോക്കുന്നു കവറേജ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധന ഞങ്ങൾ ലക്ഷ്യമിടുന്ന നിർദ്ദിഷ്ട പ്രോഗ്രാം ഘടകങ്ങളെ ആശ്രയിച്ച് ഞങ്ങൾക്ക് വ്യത്യസ്ത തന്ത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രസ്താവന കവറേജിൽ പ്രോഗ്രാം ഘടകങ്ങൾ പ്രസ്താവനയാണ് ബ്രാഞ്ച് കവറേജിൽ ഇതിനെ തീരുമാന കവറേജ് എന്നും വിളിക്കുന്നു ഓരോ ബ്രാഞ്ച് അവസ്ഥയും സത്യവും തെറ്റായ മൂല്യങ്ങളും ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു അവസ്ഥാ പരിരക്ഷയെ ഒന്നിലധികം അവസ്ഥ കവറേജ് എന്നും വിളിക്കുന്നു അതിനാൽ ഇവിടെ ഓരോ സംയുക്ത അവസ്ഥയുടെയും ഘടക വ്യവസ്ഥകൾ ഉണ്ടോ അതിനാൽ തീരുമാന പ്രകടനത്തിന് c1 c2 അല്ലെങ്കിൽ c3 മുതലായവ ഉണ്ടാകാം ഈ c1 c2 c3 എന്നിവ ഓരോന്നും സത്യവും തെറ്റായ മൂല്യങ്ങളും എടുക്കുന്നുണ്ടോ എന്നത് ഒന്നിലധികം അവസ്ഥ ഇൻപുട്ട് അവസ്ഥകളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും പരിഗണിക്കപ്പെടുമോ പാത്ത് കവറേജ് ആശ്രിത കവറേജ് തുടങ്ങിയവ വ്യത്യസ്ത കവറേജ് തന്ത്രങ്ങൾ ലക്ഷ്യമിടുന്ന വ്യത്യസ്ത തരം പ്രോഗ്രാം ഘടകങ്ങളുണ്ട് ഈ ടാർഗെറ്റ് സ്റ്റേറ്റ്മെന്റ് ബ്രാഞ്ച് കണ്ടീഷൻ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും പ്രോഗ്രാം പാതകൾ മൂടിയിട്ടുണ്ടോ പ്രോഗ്രാം പാതകൾ ഡാറ്റ ആശ്രിതത്വം മുതലായവയെ ആശ്രയിച്ചിട്ടുണ്ടോ അതിനാൽ പ്രോഗ്രാം എലമെന്റ് കവറേജ് അനുസരിച്ച് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിനായി ഞങ്ങൾക്ക് വ്യത്യസ്ത തന്ത്രങ്ങൾ ഉണ്ടാകും ഞങ്ങൾ ശ്രമിക്കുന്നു കവറേജ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയിൽ ശക്തവും ദുർബലവുമായ പരിശോധനയെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ട് ഒരു തന്ത്രം ഉൾക്കൊള്ളുന്ന എല്ലാ പ്രോഗ്രാം ഘടകങ്ങളും മറ്റൊരു തന്ത്രം ഉൾക്കൊള്ളുന്ന പ്രോഗ്രാം ഘടകങ്ങളെ കവർ ചെയ്യുമെന്ന് ഉറപ്പുനൽകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ ശക്തമായ കവറേജ് ഉണ്ട് കൂടാതെ അവയുടെ ശക്തമായ പ്രോഗ്രാം ഘടകങ്ങളുടെ ഉപവിഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഒന്ന് ഞങ്ങൾ അതിനെ വിളിക്കുന്നു ഒരു ദുർബലമായ പരിശോധന ഞങ്ങൾ കോംപ്ലിമെന്ററി ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു രണ്ട് തന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അവ പൊതുവായ ചില പ്രോഗ്രാം ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു പക്ഷേ അവ വ്യത്യസ്ത പ്രോഗ്രാം ഘടകങ്ങളും ഉൾക്കൊള്ളുന്നു അതിനാൽ ഇത് ദുർബലവും പ്രശംസനീയവുമായ ഒരു ആശയമാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് കവറേജ് ടെസ്റ്റിംഗ് ആയ ഏറ്റവും ലളിതമായ ടെസ്റ്റിംഗ് തന്ത്രം നമുക്ക് നോക്കാം അതിനാൽ ഇവിടെ പ്രധാന ഉദ്ദേശ്യം പ്രധാന ലക്ഷ്യം ടെസ്റ്റ് കേസുകൾ എഴുതുക എന്നതാണ് ഓരോ പ്രോഗ്രാം പ്രസ്താവനയും ഒരിക്കൽ പട്ടികയിൽ പ്രയോഗിക്കുന്നു സ്റ്റേറ്റ്മെന്റ് കവറേജ് ആയ ഒരു ലളിതമായ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് കവറേജ് അധിഷ്ഠിത ടെസ്റ്റിംഗ് നമുക്ക് നോക്കാം ഇത് ഏറ്റവും ലളിതമായ പരിശോധനയാണ് സ്റ്റേറ്റ്മെന്റ് കവറേജ് ടെസ്റ്റിംഗിലെ ആശയം എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ടെസ്റ്റ് കേസുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണം എന്നതാണ് കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് നിർവ്വഹിച്ചില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ആ പ്രസ്താവനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല അതാണ് പ്രധാന ആശയം ഇവിടെ എല്ലാ പ്രസ്താവനകളും ഒരു തവണയെങ്കിലും നടപ്പിലാക്കുകയോ കവർ ചെയ്യുകയോ ചെയ്യുന്ന ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ എഴുതുന്നു കാരണം ഒരു പ്രസ്താവന നടപ്പിലാക്കുന്നില്ലെങ്കിൽ ആ പ്രസ്താവനയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല അതിനാൽ ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ നൽകുകയും പ്രസ്താവനകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അളക്കുകയും ചെയ്യുന്നു എല്ലാ പ്രസ്താവനകളും നടപ്പിലാക്കുകയാണെങ്കിൽ 100 ശതമാനം പ്രസ്താവന കവറേജ് കൈവരിച്ചതായി നമുക്കറിയാം അതിനാൽ ഒരു ടെസ്റ്റ് കേസിനാണെങ്കിലും പ്രസ്താവന ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് നിരീക്ഷിച്ചില്ലെങ്കിൽ അത് പ്രവർത്തിക്കുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്ന് ഞങ്ങൾ ഇവിടെ എഴുതി സ്റ്റേറ്റ്മെന്റ് കവറേജിന്റെ പ്രശ്നവും ഒരു പ്രസ്താവന നിരീക്ഷിക്കുന്നതിലൂടെ ഒരു ഇൻപുട്ടിന് നന്നായി പ്രവർത്തിക്കുന്നു എന്നത് അതിന് ഉറപ്പ് നൽകുന്നില്ല എന്നതാണ് മറ്റ് ഇൻപുട്ടുകൾക്കും ഇത് പ്രവർത്തിക്കും എന്നാൽ ചുരുങ്ങിയത് ആ പ്രസ്താവനയെങ്കിലും ഇൻപുട്ടുകളിലൊന്ന് നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു ഇവിടെ നമുക്ക് ഈ മെട്രിക് ശതമാനം കവർ ശതമാനം സ്റ്റേറ്റ്മെന്റ് എന്നിവ ഉൾപ്പെടുന്നു അത് മൊത്തം സ്റ്റേറ്റ്മെന്റുകളുടെ എണ്ണമാണ് അതിൽ എത്ര പ്രസ്താവനകൾ എക്സിക്യൂട്ട് ചെയ്തു അതിനാൽ 80 ശതമാനം സ്റ്റേറ്റ്മെന്റ് കവറേജ് 90 ശതമാനം സ്റ്റേറ്റ്മെന്റ് കവറേജ് എന്നിവ പ്രസ്താവനകളുടെ ഏത് ഭിന്നസംഖ്യകൾ നടപ്പിലാക്കി എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് എത്തിച്ചേരാനാകാത്ത കോഡ് ഇല്ലെങ്കിൽ സാധാരണയായി ഞങ്ങൾ 100 ശതമാനം പ്രസ്താവന കവറേജ് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് 100 ശതമാനം പ്രസ്താവന കവറേജ് ആവശ്യമാണ് നമുക്ക് ഈ ഉദാഹരണം നോക്കാം അതിനാൽ ഇത് ഇവിടെ പ്രസിദ്ധമായ അൽഗോരിതം ആണ് ഞാൻ ആ കോഡ് ഇവിടെ എടുത്തു ഇതിന് x y എന്നീ രണ്ട് പാരാമീറ്ററുകൾ എടുക്കും അതേസമയം x X y എങ്കിൽ x x y അല്ലെങ്കിൽ y y x ഈ അൽഗോരിതം നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുമെന്ന് ഞാൻ കരുതുന്നു ഇത് പ്രശസ്തമായ ജിസിഡി കമ്പ്യൂട്ടിംഗ് അൽഗോരിതം യൂക്ലിഡ് ആണ് കൂടാതെ ഇവിടെ 6 പ്രസ്താവനകളുണ്ട് കൂടാതെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഉൾക്കൊള്ളുന്ന ടെസ്റ്റ് കേസുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഒരു ചെറിയ ഉപകരണം എഴുതാനും ടൂളുകൾ ലഭ്യമാണ് ജി കർവ് പോലുള്ള ഓപ്പൺ സോഴ്സ് ടൂളുകൾ ലഭ്യമാണ് എന്നാൽ നിർവ്വഹിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ ശതമാനം എത്രയാണെന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ സ്വന്തം ഉപകരണം നമുക്ക് എഴുതാം ഞങ്ങൾ അത് എങ്ങനെ ചെയ്യും സാങ്കേതികവിദ്യകളിലൊന്നായ അറേയിലെ ഘടകങ്ങൾക്ക് തുല്യമായ നിരവധി പ്രസ്താവനകളുള്ള ഒരു ശ്രേണി നമുക്ക് സജ്ജമാക്കാൻ കഴിയും സ്റ്റേറ്റ്മെന്റ് കവറേജ് പരിശോധിക്കാൻ നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട് ഒരു നിർദ്ദിഷ്ട പ്രസ്താവന കവർ ചെയ്യപ്പെടുമ്പോഴെല്ലാം അറേയിൽ അനുയോജ്യമായ വേരിയബിൾ സജ്ജമാക്കാൻ ഞങ്ങൾ ഇവിടെ ഒരു പ്രസ്താവന ചേർക്കും അതിനാൽ മൂന്നാമത്തേത് എങ്കിൽ ഇതിന് തൊട്ടുപിന്നാലെ ഞങ്ങൾക്ക് പ്രസ്താവന ഉണ്ടാകും അനുബന്ധ വേരിയബിൾ അറേയിൽ സജ്ജമാക്കുക എന്നാൽ ഒരു കാര്യം ശാഖകളില്ലെങ്കിൽ എല്ലാ പ്രസ്താവനകളും ഉൾക്കൊള്ളും അങ്ങനെ നമുക്ക് കാര്യക്ഷമമായി എഴുതാൻ കഴിയും ഉപകരണം അത് കോഡിന്റെ ഒരു ബ്ലോക്കിൽ പ്രവേശിക്കുന്നിടത്തോളം അത് അവിടെയുള്ള എല്ലാ പ്രസ്താവനകളും നിർവ്വഹിക്കും അതിനാൽ ഞങ്ങൾ ബ്ലോക്കുകൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് ശതമാനം പ്രസ്താവന കവറേജ് പരിശോധിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഉപകരണം സ്വയം എഴുതാൻ കഴിയും പക്ഷേ നടപ്പിലാക്കിയ പ്രസ്താവനയുടെ ശതമാനം റിപ്പോർട്ടുചെയ്യാൻ കഴിയുന്ന ഓപ്പൺ സോഴ്സ് ടൂളുകൾ ലഭ്യമാണ് സ്റ്റേറ്റ്മെന്റ് കവറേജ് നേടുന്നതിന് ഞങ്ങളുടെ പ്രായോഗിക പ്രോഗ്രാമുകളിൽ സാധാരണയായി ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നില്ല ഞങ്ങൾ 100 ശതമാനം സ്റ്റേറ്റ്മെന്റ് കവറേജ് നേടുന്നതുവരെ ക്രമരഹിതമായി ഇൻപുട്ട് മൂല്യങ്ങൾ നൽകുന്നു എന്നാൽ 4 ലൈനുകൾ 5 ലൈനുകൾ എന്നിവ പോലുള്ള വളരെ ചെറിയ പ്രോഗ്രാമുകൾക്ക് നമുക്ക് 100 ശതമാനം സ്റ്റേറ്റ്മെന്റ് കവറേജ് ലഭിക്കുന്ന തരത്തിൽ നൽകേണ്ട മൂല്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ കഴിയും ഈ വളരെ ചെറിയ പ്രോഗ്രാം ഈ രണ്ടുപേരുടെയും വാക്ക് ശരിയാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ നമുക്ക് x Y ഉണ്ടായിരിക്കണം അതാണ് ഞങ്ങൾ നൽകേണ്ട ഇൻപുട്ട് എന്നിട്ട് നമ്മൾ x y അത്തരത്തിലുള്ളതും ഇവിടെ വരാൻ കഴിയുന്നതുമായ ഇൻപുട്ട് നൽകണം കൂടാതെ x y എന്ന് ഇൻപുട്ട് നൽകുകയും വേണം അതിനാൽ വളരെ ചെറിയ പ്രോഗ്രാമുകൾക്ക് ഒരു ടെസ്റ്റ് സ്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ കഴിയും അത് എല്ലാ പ്രസ്താവനകളും ഉൾക്കൊള്ളുന്നു വലിയ പ്രോഗ്രാമുകൾക്കായി ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ് കവറേജ് നേടുന്നതിന് ഞങ്ങൾ ശരിക്കും ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നില്ല ഞങ്ങൾ ക്രമരഹിതമായ ഇൻപുട്ട് നൽകുകയും കവറേജ് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഓപ്പൺ സെർച്ച് ടൂൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ടൂൾ ഓരോ തവണയും ഞങ്ങൾ ഒരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കവറേജ് നേടുന്നതെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനാകും കൂടാതെ 100 ശതമാനം സ്റ്റേറ്റ്മെന്റ് കവറേജ് ലഭിക്കുന്നതുവരെ ഞങ്ങൾ ക്രമരഹിതമായ ഇൻപുട്ടുകൾ നൽകിക്കൊണ്ടിരിക്കും അതിനാൽ നിങ്ങൾ ടെസ്റ്റ് കേസുകൾ സ്വമേധയാ രൂപകൽപ്പന ചെയ്താൽ ആ ചെറിയ പ്രോഗ്രാമിനായി നമുക്ക് 100 ശതമാനം സ്റ്റേറ്റ്മെന്റ് കവറേജ് നേടാൻ കഴിയുന്ന മൂല്യങ്ങൾ ഇവയാണെന്ന് ഞങ്ങൾ കാണും സ്റ്റേറ്റ്മെന്റ് കവറേജ് വളരെ ലളിതമായ ആശയങ്ങളാണ് പക്ഷേ ബഗുകൾ കണ്ടെത്തുന്നതിൽ ഇത് കുറഞ്ഞത് ഫലപ്രദമാണ് കാരണം ഇത് ഏറ്റവും ദുർബലമായ ടെസ്റ്റിംഗ് ദുർബലമായ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് നമുക്ക് ശക്തമായ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് നോക്കാം ശാഖ കവറേജ് അല്ലെങ്കിൽ തീരുമാന കവറേജ് ആണ് ഏറ്റവും ശക്തമായ പരിശോധന തീരുമാന കവറേജിൽ ഓരോ ബ്രാഞ്ച് വ്യവസ്ഥകളും സത്യവും തെറ്റായ മൂല്യങ്ങളും thatഹിക്കുന്ന തരത്തിലാണ് ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ ഞങ്ങൾക്ക് ഒരു തീരുമാന പ്രസ്താവന ഉണ്ടെങ്കിൽ ഈ തീരുമാനങ്ങൾ ഓരോന്നും യഥാർത്ഥ മൂല്യവും തെറ്റായ മൂല്യവും സ്വീകരിക്കുമോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു അപ്പോൾ ഞങ്ങൾ പറയുന്നത് 100 ശതമാനം ബ്രാഞ്ച് കവറേജ് കൈവരിക്കാനാകുമെന്നാണ് അതിനാൽ ഒരേ പ്രോഗ്രാമിനായി ഇവിടെ ശാഖകളുടെ തീരുമാനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് അതേസമയം സത്യവും തെറ്റും ആണോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ അവസ്ഥ സത്യവും തെറ്റും ആണ് If എന്നതിനുള്ള ഈ വ്യവസ്ഥ സത്യവും തെറ്റും ആണ് ഈ പദപ്രയോഗം സത്യവും തെറ്റും ആകുന്നതിനും ഈ പ്രയോഗം സത്യവും തെറ്റും ആയി മാറുന്നതിനും തുടർന്ന് ബ്രാഞ്ച് കവറേജ് കൈവരിച്ചതായി പറയുന്നതിനും നമുക്ക് ടെസ്റ്റ് കേസുകൾ നേടേണ്ടതുണ്ട് അതിനാൽ വളരെ ചെറിയ പ്രോഗ്രാമുകൾക്കായി നമുക്ക് വീണ്ടും ബ്രാഞ്ച് കവറേജ് നേടുന്നതിന് ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കാനോ എഴുതാനോ കഴിയും അതിനാൽ ഈ മൂല്യങ്ങളുടെ കൂട്ടം ആ അവസ്ഥകളെ സത്യവും തെറ്റും ആക്കിത്തീർക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ വലിയ സങ്കീർണ്ണമായ പ്രോഗ്രാമുകൾക്ക് ബ്രാഞ്ച് കവറേജ് നേടുന്നതിന് ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൂടാതെ പ്രായോഗികമായി ആരും ശാശ്വതമായി ഇൻപുട്ട് മൂല്യങ്ങൾ നൽകുന്ന ബ്രാഞ്ച് കവറേജ് നേടുന്നതിന് ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്നില്ല കൂടാതെ കൈവരിച്ച ബ്രാഞ്ച് കവറേജ് പരിശോധിക്കുന്ന ഒരു കവറേജ് ടൂൾ ഉണ്ട് ഇവിടെ വീണ്ടും ബ്രാഞ്ച് കവറേജ് പരിശോധിക്കുന്നു ഒരു ഉപകരണം എഴുതുന്നത് എത്ര ബ്രാഞ്ച് കവറേജ് നേടി എന്നത് വളരെ ലളിതമാണ് കൂടാതെ ഓപ്പൺ സോഴ്സ് ടൂളുകൾ ലഭ്യമാണ് അത് നേടിയ ബ്രാഞ്ച് കവറേജ് എന്താണെന്ന് റിപ്പോർട്ടുചെയ്യാനാകും അതിനാൽ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു ബ്രാഞ്ച് കവറേജ് ശതമാനമാണ് സാധ്യമായ മൊത്തം ശാഖകളാൽ വിഭജിക്കപ്പെടുന്ന നിർവ്വഹിക്കപ്പെട്ട ബ്രാഞ്ചുകളുടെ എണ്ണം യൂക്ലിഡ് ജിസിഡി പ്രോഗ്രാമിൽ രണ്ട് ബ്രാഞ്ച് നിബന്ധനകളുണ്ട് അതിനാൽ ഞങ്ങൾക്ക് നാല് ബ്രാഞ്ച് ഫലങ്ങളും നാല് സാധ്യമായ ബ്രാഞ്ച് ഫലങ്ങളും ഉണ്ടാകും അവയിൽ എത്രയെണ്ണം എടുത്തിട്ടുണ്ടെന്നതിനെ ആശ്രയിച്ച് ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത ബ്രാഞ്ചുകളുടെ എണ്ണം ഉണ്ടാകും അതിനാൽ ഇത് 1 മുതൽ 4 25 ശതമാനം അല്ലെങ്കിൽ 2 മുതൽ 4 വരെ 50 ശതമാനം അല്ലെങ്കിൽ 75 ശതമാനം അല്ലെങ്കിൽ 100 ശതമാനം ആകാം എന്നാൽ രണ്ട് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് തന്ത്രങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് കവറേജും ബ്രാഞ്ച് കവറേജും ഏതാണ് ശക്തമായ ടെസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാനാകുമോ കാരണം നിങ്ങൾ ഒരു ശക്തമായ പരിശോധന നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ദുർബലമായ പരിശോധന നടത്തേണ്ടതില്ല എന്നതാണ് ആശയം ഒരു ശക്തമായ പരിശോധന ഒരു ദുർബലമായ പരിശോധനയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രോഗ്രാം ഘടകങ്ങളെയും ഉൾക്കൊള്ളുമായിരുന്നു അതിനാൽ ഞങ്ങൾ ഒരു ശക്തമായ പരിശോധന നടത്തുന്നിടത്തോളം നിരവധി ദുർബലമായ പരിശോധനകൾ ഉണ്ടെന്ന് പറയട്ടെ ഞങ്ങൾ ഒരു ശക്തമായ പരീക്ഷണം നടത്തുന്നു ഞങ്ങൾ എല്ലാ ദുർബല പരിശോധനകളും നടത്തേണ്ടതില്ല ഒരു ശക്തമായ പരിശോധന മാത്രം മതി അതിനാൽ ശാഖയ്ക്കും പ്രസ്താവന കവറേജിനുമിടയിൽ കൂടുതൽ ശക്തമാണ് ബ്രാഞ്ച് കവറേജ് കൂടുതൽ ശക്തമാണെന്ന് കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രാഞ്ച് കവറേജ് സ്റ്റേറ്റ്മെന്റ് കവറേജ് ഉറപ്പ് നൽകുമെന്ന് ഞങ്ങൾ കാണിക്കേണ്ടതുണ്ട് കൂടാതെ സ്റ്റേറ്റ്മെന്റ് കവറേജ് ബ്രാഞ്ച് കവറേജ് നേടുന്നില്ലെന്ന് ഞങ്ങൾ കാണിക്കേണ്ടതുണ്ട് അതിനാൽ സ്റ്റേറ്റ്മെന്റ് കവറേജിൽ ഉൾപ്പെടാത്ത ഒരു ബ്രാഞ്ചെങ്കിലും ഉണ്ട് അല്ലാത്തപക്ഷം അവ ഒന്നുതന്നെയായിരിക്കും അതിനാൽ ഞങ്ങൾ ഒരു വഴി കാണേണ്ടതുണ്ട് ബ്രാഞ്ച് കവറേജ് പ്രസ്താവന കവറേജ് കൈവരിക്കുന്നുവെന്ന് ഞങ്ങൾ കാണിക്കണം കൂടാതെ സ്റ്റേറ്റ്മെന്റ് കവറേജ് ബ്രാഞ്ച് കവറേജ് നേടുന്നില്ലെന്ന് ഞങ്ങൾ കാണിക്കേണ്ടതുണ്ട് ചില ശാഖകളെങ്കിലും പ്രസ്താവനകളാൽ മൂടപ്പെട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അത് എങ്ങനെ കാണിക്കും അതിനാൽ ഒരു ശക്തമായ പരിശോധനയിൽ ദുർബലമായ പരിശോധനയുടെ എല്ലാ ഘടകങ്ങളും ഇത് ഉൾക്കൊള്ളുന്നുവെന്ന് നമുക്ക് കാണിക്കേണ്ടതുണ്ട് ഓരോ പ്രസ്താവനയും ഏതെങ്കിലും ശാഖയിൽ കിടക്കുന്നുവെന്ന് നമുക്ക് വാദിക്കാം അതിനാൽ എല്ലാ ശാഖകളും മൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രസ്താവനകളും കവർ ചെയ്തിരിക്കണം എല്ലാ പ്രസ്താവനകളും ചില ശാഖകളിലാണെന്ന ഈ വാദം ഞാൻ ആവർത്തിക്കട്ടെ അതിനാൽ എല്ലാ ശാഖകളും മൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രസ്താവനകളും മൂടിയിരിക്കണം അങ്ങനെ ബ്രാഞ്ച് കവറേജ് സ്റ്റേറ്റ്മെന്റ് കവറേജ് കൈവരിക്കുമെന്ന് കാണിക്കുന്നു എന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് കവറേജ് എങ്ങനെ നേടാനാകില്ലെന്ന് ഞങ്ങൾ കാണിക്കും ബ്രാഞ്ച് കവറേജ് അതിനാൽ അതിനായി നമുക്ക് ഒരു ഉദാഹരണമെങ്കിലും നൽകാം അവിടെ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് കവറേജ് നേടുന്നുവെന്ന് കാണിക്കുന്നു പക്ഷേ അത് സ്റ്റേറ്റ്മെന്റ് കവറേജ് ബ്രാഞ്ച് കവറേജ് നേടുന്നില്ലെന്ന് കാണിക്കുന്ന ബ്രാഞ്ച് കവറേജ് നേടുന്നില്ല അതിനാൽ എനിക്ക് ശരിക്കും ഒരു സ്ലൈഡ് ഇല്ല ഉദാഹരണം സ്ലൈഡിൽ എഴുതിയിട്ടില്ല പക്ഷേ പ്രസ്താവന കവറേജ് ബ്രാഞ്ച് കവറേജ് നൽകാത്ത ഒരു ഉദാഹരണം നൽകാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഒരു ലളിതമായ ഉദാഹരണം b printf എന്തെങ്കിലും വലുതാണെങ്കിൽ അതിനാൽ ഇവിടെ b നേക്കാൾ വലുതാണെങ്കിൽ printf നടപ്പിലാക്കുന്നു സ്റ്റേറ്റ്മെന്റ് കവറേജ് ബി എന്നതിനേക്കാൾ വലുതായിരിക്കും അതിനാൽ b നേക്കാൾ വലുതായിട്ടുള്ള a ന്റെ ഏത് മൂല്യത്തിനും നമുക്ക് സ്റ്റേറ്റ്മെന്റ് കവറേജ് ഉണ്ടായിരിക്കും പക്ഷേ തീരുമാന കവറേജോ ബ്രാഞ്ച് കവറേജോ നേടാനാകില്ല കാരണം ഞങ്ങൾക്ക് ബിക്ക് തുല്യമോ കുറവോ ഉള്ള ടെസ്റ്റ് കേസ് ആവശ്യമാണ് അതിനാൽ ടെസ്റ്റ് കേസ് b നേക്കാൾ വലുതാണ് സ്റ്റേറ്റ്മെന്റ് കവറേജ് നേടുന്നു പക്ഷേ ബ്രാഞ്ച് കവർ നേടുന്നില്ല സ്റ്റേറ്റ്മെന്റ് കവറേജ് ബ്രാഞ്ച് കവറേജ് നേടുന്നില്ലെന്ന് കാണിക്കാൻ ഇത് മതിയായ ഉദാഹരണമാണ് കൂടാതെ ഓപ്പൺ സോഴ്സ് ടൂളുകൾ നൽകുന്ന നിരവധി ഉപകരണങ്ങൾ ലഭ്യമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ അവയിൽ പലതും ഉണ്ട് ഏത് കവറേജ് സ്റ്റേറ്റ്മെന്റ് കവറേജ് ബ്രാഞ്ച് കവറേജ് എന്നിവ നൽകാൻ കഴിയും അതിനാൽ ചില ടെസ്റ്റ് കേസുകൾ നിർവ്വഹിച്ചതിന് ശേഷം ഈ ഉപകരണം ഏത് പാക്കേജിനായി ബ്രാഞ്ച് കവറേജ് എത്രമാത്രം നേടിയെന്ന് ലൈൻ കവറേജ് നൽകുന്നു മാത്രമല്ല ഏത് പ്രസ്താവനകൾ നടപ്പാക്കിയിട്ടില്ലെന്നും ഇത് കാണിക്കുന്നു പക്ഷേ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ബ്രാഞ്ച് കവറേജ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനകം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കവറേജ് നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാൽ നിങ്ങൾ 100 ശതമാനം ബ്രാഞ്ച് കവറേജ് നേടിയ ഒരു പ്രോഗ്രാം ഇപ്പോഴും ബഗുകൾ നിലനിൽക്കാൻ സാധ്യതയുണ്ടോ ആ ബഗുകൾ എന്തൊക്കെയാണ് 100 ശതമാനം ബ്രാഞ്ച് കവറേജ് നേടിയാലും നിലനിൽക്കുന്ന ഒരു ബഗ് നമുക്ക് ഉദാഹരണമായി നൽകാമോ ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റ് തന്ത്രം ഞങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യും അത് ആ ബഗുകൾ പരിശോധിക്കും ഡിജിറ്റൽ ഹൈ ശരിയാണെങ്കിലോ അക്കം താഴ്ന്നതാണെങ്കിലോ തെറ്റായതാണെങ്കിൽ ഒരു നിബന്ധനയിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടെന്ന് ഒരു ഉദാഹരണം നോക്കാം 1 പിന്നെ എന്തെങ്കിലും ചെയ്യുക ഇപ്പോൾ ബ്രാഞ്ച് കവറേജിനായി ഈ പരാമീറ്ററുകളിൽ ഒന്ന് ശരിയാണെങ്കിൽ ഡിജിറ്റ് ഹൈ ശരിയാണെന്നും അക്കം കുറഞ്ഞതാണെന്നും പറയട്ടെ നമുക്ക് അത് ശരിയും തെറ്റും ആയി സജ്ജമാക്കാം അപ്പോൾ ബ്രാഞ്ച് കവറേജ് കൈവരിക്കും അതിനാൽ അക്കം കുറയുന്നത് സത്യവും തെറ്റായ മൂല്യങ്ങളും മാത്രമാണ് അക്കം ഉയർന്നത് ശരിയാകുമ്പോൾ നമ്മൾ കൈവരിക്കും അക്കം ഉയർന്നത് തെറ്റായിരിക്കുമ്പോൾ ക്ഷമിക്കണം അക്കം കുറവും സത്യവും തെറ്റായ മൂല്യവും ഈ ശാഖയ്ക്ക് സത്യവും തെറ്റും കൈവരിക്കും ഇവിടെ ഒരു പദപ്രയോഗമോ പദപ്രയോഗമോ ഉണ്ട് അതിനാൽ ഇത് തെറ്റായിരിക്കുന്നിടത്തോളം കാലം സത്യവും മിഥ്യയും ഈ പദപ്രയോഗം ഉണ്ടാക്കും മുഴുവൻ ആവിഷ്കാരവും സത്യമോ തെറ്റോ ആണ് അതിനാൽ ബ്രാഞ്ച് കവറേജ് കൈവരിക്കാനാകും എന്നാൽ ഡിജിറ്റൽ ഉയരം ശരിയാകുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു ബഗ് നമുക്ക് ഉണ്ടെങ്കിൽ അക്കം ഉയർന്നത് തെറ്റും അക്കം കുറഞ്ഞ് സത്യവും തെറ്റും ആയി നിലനിർത്തുന്നതിലൂടെ ഞങ്ങൾ ബ്രാഞ്ച് കവറേജ് നേടുന്നു പക്ഷേ അക്കം ഉയർന്നത് ശരിയാകുമ്പോൾ മാത്രമേ ബഗ് സംഭവിക്കുകയുള്ളൂ അതിനാൽ ബ്രാഞ്ച് കവറേജ് കൈവരിക്കുമ്പോൾ 100 ശതമാനം ബ്രാഞ്ച് കവറേജ് ഈ ബഗ് കണ്ടുപിടിക്കാൻ കഴിയില്ല അതിനാൽ ഞങ്ങൾ എന്തുതരം തന്ത്രങ്ങളാണ് ചെയ്യുന്നത് ടെസ്റ്റ് തന്ത്രങ്ങൾ ഞങ്ങൾ വിന്യസിക്കുന്നു ഞങ്ങൾ വ്യവസ്ഥ കവറേജ് ചെയ്യണം ഒന്നിലധികം അവസ്ഥ കവറേജ് എന്നും വിളിക്കുന്നു അതിനാൽ ഓരോ ഘടക വ്യവസ്ഥയും സത്യവും തെറ്റായ മൂല്യവും എടുക്കുന്നു അതിനാൽ എക്സ്പ്രഷനിൽ ഒരേയൊരു നിബന്ധന മാത്രമേ ഉള്ളൂവെങ്കിൽ ബ്രാഞ്ച് കവറേജും കണ്ടീഷൻ കവറേജും ഒരേ സമയം എന്നാൽ ഒന്നിലധികം നിബന്ധനകൾ ഉണ്ടാകുമ്പോൾ ഉപാധികൾ ഉപാധികളോടെ ബ്രാഞ്ച് കവറേജ് നേടാൻ എല്ലാ ബഗുകളും കണ്ടെത്താനാകില്ല വ്യക്തിഗത ഘടക വ്യവസ്ഥകൾ ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഉപ വ്യവസ്ഥകൾ സത്യവും തെറ്റായ മൂല്യങ്ങളും നൽകണം നമുക്ക് ഒരു ഉദാഹരണം നോക്കാം c 1 c 2 അല്ലെങ്കിൽ c 3 അതിനാൽ കണ്ടീഷൻ കവറേജിൽ നമുക്ക് c 1 ഉം c 2 സത്യവും തെറ്റും c 2 സത്യവും തെറ്റും c 3 സത്യവും തെറ്റും ആയിരിക്കണം ഒന്നിലധികം കണ്ടീഷൻ കവറേജിൽ സി 1 സി 2 സി 3 എന്നിവയുടെ എല്ലാ സാധ്യമായ കോമ്പിനേഷനുകളും നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് സത്യം സത്യം സത്യം സത്യം അസത്യം സത്യം സത്യമായ തെറ്റായ തെറ്റായ തെറ്റായ സത്യമായ സത്യമായ മുതലായവ നമ്മൾ പരിഗണിക്കേണ്ട സാഹചര്യങ്ങളുടെ എല്ലാ സംയോജനവും ഒന്നിലധികം വ്യവസ്ഥകൾക്ക് n ഘടക വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഓരോന്നും രണ്ട് മൂല്യങ്ങൾ സത്യവും തെറ്റും എടുക്കുന്നു നമുക്ക് 2n സാധ്യമായ ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് അടിസ്ഥാന അവസ്ഥ പരിശോധനയ്ക്കായി ഓരോ അവസ്ഥയും സത്യവും തെറ്റായ മൂല്യങ്ങളും എടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു സാധ്യമായ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ എടുക്കുന്നില്ല അതിനാൽ ഞാൻ ഇവിടെ പറയുന്നത് c 1 c 2 അല്ലെങ്കിൽ c 3 ആണെങ്കിൽ ഇതാണ് അവസ്ഥ എങ്കിൽ ഇത് ശരിയാണെങ്കിൽ ശരിയാണ് സത്യവും തെറ്റും തെറ്റും തെറ്റും ഇതിൽ രണ്ടെണ്ണം മാത്രമേ അടിസ്ഥാന അവസ്ഥ പരിശോധനയിൽ വിജയിക്കൂ ഓരോരുത്തരും സത്യവും തെറ്റായ മൂല്യങ്ങളും എടുത്തിട്ടുള്ളതിനാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റ് കേസ് ഉണ്ടാവാം അത് സത്യവും തെറ്റും സത്യവും തെറ്റും സത്യവും തെറ്റും ആണ് അങ്ങനെ ഓരോ അവസ്ഥയും സത്യവും തെറ്റായ മൂല്യങ്ങളും എടുക്കുന്നുവെന്ന് ഉറപ്പാക്കും അതിനാൽ ഈ അവസ്ഥയ്ക്കുള്ള മൂല്യങ്ങളുടെ എണ്ണം 2 മുതൽ n വരെയാണ് ഇവിടെ n അടിസ്ഥാന വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 ആയി n വേണം ശതമാനം മൂടിയിരിക്കുന്നു എന്നത് എല്ലാ അടിസ്ഥാന വ്യവസ്ഥകളും എടുക്കുന്ന സത്യമൂല്യത്തെ 2 അടിസ്ഥാന വ്യവസ്ഥകളായി വിഭജിച്ചിരിക്കുന്നു ഞങ്ങൾ ഇവയെ ശാഖാപരിശോധനയുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ശാഖാ പരിശോധന യഥാർത്ഥത്തിൽ ഏറ്റവും ലളിതമായ അവസ്ഥ പരിശോധനാ തന്ത്രമാണ് ഈ അവസ്ഥയുടെ മുഴുവൻ ഫലവും സത്യവും തെറ്റും ആണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു എല്ലാ ഘടക വ്യവസ്ഥകളും സത്യവും തെറ്റും ആണെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നില്ല അതിനാൽ ബ്രാഞ്ച് ടെസ്റ്റിംഗ് ഏറ്റവും ലളിതമായ തന്ത്രമാണ് അവസ്ഥ തന്ത്രമാണ് അടിസ്ഥാന വ്യവസ്ഥ ശാഖാ പരിശോധനയേക്കാൾ ശക്തമായ തന്ത്രമാണ് അത് കാണിക്കാൻ വളരെ എളുപ്പമായിരിക്കും അതിനാൽ ഞങ്ങൾക്ക് ഈ ശ്രേണി ഇവിടെയുണ്ട് സ്റ്റേറ്റ്മെന്റ് കവറേജ് ഏറ്റവും ദുർബലമാണ് തുടർന്ന് ഞങ്ങൾക്ക് ഈ തീരുമാനമോ ബ്രാഞ്ച് കവറേജോ ഉണ്ട് തുടർന്ന് ഞങ്ങൾക്ക് ഈ അടിസ്ഥാന അവസ്ഥ പരിരക്ഷയും തുടർന്ന് ഒന്നിലധികം അവസ്ഥ കവറേജും ഉണ്ട് അടിസ്ഥാന വ്യവസ്ഥ പരിരക്ഷയിൽ ഓരോ ഘടക വ്യവസ്ഥയും സത്യവും തെറ്റായ മൂല്യങ്ങളും എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതേസമയം മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജിൽ ഘടക വ്യവസ്ഥകൾക്കിടയിൽ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഉറപ്പാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഒന്നിലധികം കണ്ടീഷൻ കവറേജ് ചെയ്യുന്നുവെങ്കിൽ അടിസ്ഥാനപരമായ കവറേജ് തീരുമാന കവറേജ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കവറേജ് ഇവയൊന്നും ഞങ്ങൾ ചെയ്യേണ്ടതില്ല മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് എന്തുകൊണ്ട് ചെയ്യരുതെന്ന് നിങ്ങൾ പറയും നിർഭാഗ്യവശാൽ ഒരു എക്സ്പ്രഷനിലെ ഘടകങ്ങളുടെ എണ്ണം വളരെയധികം ടെസ്റ്റ് കേസുകൾ ആവശ്യമായി വരുമ്പോൾ അത്തരം പ്രയോഗങ്ങൾ പല ആപ്ലിക്കേഷനുകളിലും സംഭവിക്കുന്നു ഉദാഹരണത്തിന് ഉൾച്ചേർത്ത നിയന്ത്രണ ആപ്ലിക്കേഷനുകൾ നമുക്ക് 20 അല്ലെങ്കിൽ 25 വേരിയബിളുകൾ ഉൾപ്പെടുന്ന ഒരു സോപാധികമായ പദപ്രയോഗം ഉണ്ടായിരിക്കാം ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് 220 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ ആ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യും മൾട്ടിപ്പിൾ കണ്ടീഷൻ ടെസ്റ്റിംഗ് പോലെ നിങ്ങൾക്ക് ഇപ്പോഴും ഫലപ്രദമായ ടെസ്റ്റ് കെയ്സുകളില്ലാത്തതിനാൽ ഞങ്ങൾക്ക് MCDC ടെസ്റ്റ് ഒന്നിലധികം കണ്ടീഷൻ തീരുമാന കവറേജ് ടെസ്റ്റിംഗ് നടത്താം അവസ്ഥ കവറേജ് അതേസമയം 100 ശതമാനം എംസിഡിസി കവറേജ് നേടുന്നതിന് ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കും MCDC വളരെ പ്രശസ്തമായ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് തന്ത്രമാണ് എന്നതിൽ അതിശയിക്കാനില്ല പ്രോഗ്രാമുകൾ MCDC കവറേജ് ആയിരിക്കണമെന്ന് സോഫ്റ്റ്വെയർ സ്വീകാര്യമാകണമെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് പല സർട്ടിഫൈ ചെയ്യുന്ന ഏജൻസികളും നിർബന്ധമാക്കിയിട്ടുണ്ട് കാരണം അനാവശ്യമായി ടെസ്റ്റ് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ ഒന്നിലധികം കണ്ടീഷൻ ടെസ്റ്റിംഗിന്റെ അത്രയും ബഗ് നമുക്ക് കണ്ടെത്താനാകും അതിനാൽ അടുത്ത സെഷനിൽ MCDC ടെസ്റ്റിംഗ് ആയ ഒന്നിലധികം വ്യവസ്ഥ തീരുമാന കവറേജ് ഞങ്ങൾ നോക്കുകയും അവിടെ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നും ഒരു ടെസ്റ്റ് കേസ് എങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും അവിടെയുള്ള അടിസ്ഥാന ആശയങ്ങൾ എന്താണെന്നും നോക്കാം